നമുക്ക് ഒരു ഹാർമോണിക് ഓസിലേറ്റർ എടുക്കാം ഇത് A ആംപ്ലിട്യൂഡിൽ ഓസിലേറ്റ് ചെയ്യുന്നെന്നിരിക്കട്ടെ ഇതാണ് A അപ്പോൾ അതിന്റെ എനർജി 12kA2 അഥവാ 12m2A2ആയിരിക്കും ഇവിടെ m എന്നത് പാർട്ടിക്കിളിന്റെ മാസ്സ് ഈ എനർജിയെ നമ്മൾ ആക്ഷൻ ഉപയോഗിച്ച് മാറ്റി എഴുതുകയാണ് ആംപ്ലിട്യൂഡിനെ പ്രതിനിധാനം ചെയ്യാൻ നമ്മൾ A എന്ന പ്രതീകം എടുത്തത് കാരണം ആക്ഷന് നമ്മൾ J എന്ന പ്രതീകം എടുക്കാം J എന്നത് നിങ്ങൾക്കറിയാം 2 AApdx ആണെന്ന് ഇത് 40Apdx നു തുല്യമാണല്ലോ എന്നാൽ അതായത് ആണ് അപ്പോൾ ഇവിടെ 12m2A2 ആകെ എനർജി 12m2x 2 എന്നത് പൊട്ടൻഷ്യൽ എനർജി ആണ് അങ്ങനെ ആക്ഷൻ J എന്നത് ഇന്റഗ്രലിന്റെ വാല്യൂ 𝞹 4 A2 ആണെന്ന് കാണാം അപ്പോൾ അതായത് നേരത്തെ ഞാൻ പറഞ്ഞുകഴിഞ്ഞു എനർജി E എന്നത് 12m2A2 ആണെന്ന് ഇപ്പോൾ നമുക്ക് കിട്ടി ആക്ഷൻ J എന്നത് πmωA2 ആണെന്ന് അപ്പോൾ അതായത് കാരണം ഫ്രീക്വൻസി 𝜈 𝜔 2𝜋 ആണ് ഈ ഇക്വേഷനിൽ നിന്നും ഇതാണ് ഒരു ഉദാഹരണം ഇതുപോലെ മറ്റൊരു ഉദാഹരണം എടുക്കാം നമുക്ക് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എടുക്കാം പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എടുത്താൽ പാർട്ടിക്കിളിന്റെ എനർജി ക്ലാസിക്കൽ തിയറി അനുസരിച്ച് 12mv2 അഥവാ p22m ആണ് ഇവിടെ ആക്ഷൻ എന്നത് അതായത് അപ്പോൾ എനർജി ഇതിൽ നിന്നും പക്ഷെ നിങ്ങൾക്കറിയാം J 2Lp ആണെന്ന് അപ്പോൾ അപ്പോൾ നമ്മൾ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്ന ഉദാഹരണത്തിൽ കണ്ടത് പക്ഷെ നിങ്ങൾക്കറിയാം pm വെലോസിറ്റി v ആണെന്ന് അപ്പോൾ അങ്ങനെ രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അടുത്തതായി മൂന്നാമത്തെ ഉദാഹരണം നോക്കാം ഇവിടെ നമ്മൾ ഒരു സെൻട്രൽ പൊട്ടൻഷ്യലിന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന പാർട്ടിക്കിൾ എടുക്കാം റേഡിയസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇതിന്റെ എനർജി ഇവിടെ ആക്ഷൻ J എന്നതിന് നമുക്ക് J𝜙 എന്നെടുക്കാം അപ്പോൾ ഇത് എനർജിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിട്യൂട് ചെയ്താൽ V ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും അതുകൊണ്ടുതന്നെ J𝜙 എന്നത് അംഗുലർ മൊമെന്റം ഉപയോഗിച്ച് മാറ്റി എഴുതിയാൽ J𝜙 2𝜋L എന്നും L mvr എന്നും എടുത്താൽ ഇതിൽ m ക്യാൻസൽ ചെയ്യുന്നു പിന്നെ R 2𝜋 ഇവ ക്യാൻസൽ ചെയ്യുന്നു അതായത് vR 𝜔 ആണ് അതുകൊണ്ട് അപ്പോൾ ഇന്നിവിടെ ഉദാഹരണങ്ങളിലൂടെ ∂E∂Jclasical എന്ന റിസൾട്ട് ശരിയാണെന്ന് സമർത്ഥിച്ചിരിക്കയാണ് മാത്രമല്ല ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് നമ്മൾ കണ്ടത് n →∞ ആകുമ്പോൾ Eh→τclasical ആയിരിക്കുമെന്നാണ് അപ്പോൾ നമുക്ക് രണ്ടു റിസൾട്ട് ലഭിച്ചിരിക്കയാണ് ∂E∂Jclasical പിന്നെ n ആകുമ്പോൾ Eh→τclasical ഇനി ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെടുത്താൻ പോവുകയാണ് നമുക്കറിയാം EEn En τ എന്ന് n വളരെ വലുതാകുമ്പോൾ ഇതിനെ എനിക്ക് 𝜕E 𝜕JΔJ എന്നെഴുതാൻ സാധിക്കും കാരണം 𝞃 എന്നത് വളരെ ചെറിയ നമ്പർ ആകുമ്പോൾ J വളരെ വലിയ വാല്യൂ ആകുന്നു ഫലത്തിൽ ഇവ ഒരു കണ്ടിന്യൂയം ആകുന്നതുപോലെ എടുക്കാം 𝞃 വിലുണ്ടാകുന്ന 1 അല്ലെങ്കിൽ 2 വ്യത്യാസം അല്ലെങ്കിൽ ഇത്തരം ചെറിയ വ്യത്യാസം n ന്റെ വലിയ വാല്യൂ അപേക്ഷിച്ച് വളരെ ചെറുതാണ് അപ്പോൾ nth ലെവലിൽ നിന്നും n τth ലെവെലിലേക്കു ചാടുമ്പോൾ J വാല്യൂ nh ൽ നിന്നും n τh ലേക്ക് മാറുന്നു അതായത് ΔJ 𝞃h അപ്പോൾ അതായത് അപ്പോൾ nn τ clasical എന്ന റിസൾട്ട് കേവലം യാദൃശ്ചികമായുണ്ടായതല്ല എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇത് ഒരു അടിസ്ഥാന തത്വം തന്നെയാണ് ഇതാണ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത് അതായത് ബോർ പ്രസ്താവിച്ച കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ ഇത് സാധാരണയായി ഫ്രീക്വൻസിയിലൂടെയാണ് നമുക്ക് ദൃശ്യമാകുന്നത് ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് വളരെ വലിയ ക്വാണ്ടം നമ്പർ വരുന്ന അവസ്ഥയിൽ ക്വാണ്ടം റിസൾട്ടും ക്ലാസിക്കൽ റിസൾട്ടും ഒന്നാകുന്നു അങ്ങനെയെങ്കിൽ ക്ലാസിക്കൽ റിസൾട്ട് അറിയാവുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് തിരിച്ച് ചെറിയ ക്വാണ്ടം നമ്പർ അവസ്ഥയിലേക്ക് പോയി അവിടെ എന്ത് സംഭവിക്കുന്നെന്നു ഊഹിച്ചെടുക്കാവുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുകൂടി പറഞ്ഞ് ഞാനീ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഞാനിവിടെ എടുത്ത മൂന്ന് ഉദാഹരണങ്ങളിലെയും പാർട്ടിക്കിളിന്റെ ചലനം ഇവിടെ വരച്ചു നോക്കാം അതായത് 1 പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് 2 ഹാർമോണിക് ഓസിലേറ്റർ 3 ആറ്റത്തിൽ പരിക്രമണം ചെയ്യുന്ന ഇലക്ട്രോൺ ഇവിടെ Y ആക്സിസിൽ x യും X ആക്സിസിൽ t യും എടുത്തിരിക്കുന്നു ഒന്നാമത്തെ കേസിൽ x 0 യ്കും x L നും ഇടയിലുള്ള ചലനം ഇങ്ങനെ കാണിക്കാം ഇവിടെ ടൈം പീരീഡ് 2Lv ഉം അനുബന്ധ ഫ്രീക്വൻസി 𝞶 v2L ഉം ആയിരിക്കും രണ്ടാമത്തെ കേസിൽ ഇങ്ങനെ ഹാർമോണിക് മോഷൻ ആയിരിക്കും ഇവിടെ ടൈം പീരീഡ് T ഫ്രീക്വൻസി 𝞈 2𝞹 ആയിരിക്കും മൂന്നാമത്തെ കേസിൽ അതായത് സർക്യൂലർ മോഷൻ എടുത്താൽ ഇതിനും ഒരു സിംഗിൾ ഫീക്വൻസി ആയിരിക്കും ഇത് ഫ്യൂരിയർ സീരീസ് ഉപയോഗിച്ച് ഒന്നുകൂടെ വിശദമാക്കാം ഒന്നാമത്തെ കേസിൽ x ∑Ceiτωt ഇവിടെ C𝞽 എന്നത് കോയിഫിഷ്യന്റ് 𝞈 2𝞹𝞶 എന്നത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്നാൽ ഇത് തികച്ചും ഹാർമോണിക് അല്ല ഇതിൽ അനേക ഹാർമോണിക്സ് അടങ്ങിയിരിക്കുന്നു രണ്ടാമത്തെ കേസിൽ x ശുദ്ധ ഹാർമോണിക് ആണ് അതിനാൽ മൂന്നാമത്തെ കേസിൽ അതായത് സർക്യൂലർ മോഷൻ എടുത്താൽ ഇവിടെ R റേഡിയസ് 𝞈 ഫ്രീക്വൻസിയുമാണ് അപ്പോൾ ആദ്യത്തെ കേസിൽ അതായത് പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൽ പാർട്ടിക്കിൾ അങ്ങോട്ടുമിങ്ങോട്ടും ചലിക്കുന്നു ഇവിടെ ഫ്രീക്വൻസി v2L ഉം അതിന്റെ ഉയർന്ന ഹർമോണിക്സും ആയിരിക്കും അതുകൊണ്ടുതന്നെ ഇത് റേഡിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ v2L ഉം അതിന്റെ ഉയർന്ന ഹാർമോണിക്സ് ഫ്രീക്വൻസിയും അടങ്ങിയിരിക്കും എന്നാൽ രണ്ടാമത്തെ കേസിലാകട്ടെ ഒരേ ഒരു ഫ്രീക്വൻസി മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ടുതന്നെ ഇത് റേഡിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരൊറ്റ ഫ്രീക്വൻസി യിലായിരിക്കും ഇവിടെ അഥവാ ഫ്രീക്വൻസി ν2π മൂന്നാമത്തെ കേസിൽ x y ഇവ ഒരു സിംഗിൾ ഫ്രീക്വൻസിയ്ക്കനുസരിച്ച് മാറുന്നുണ്ട് ഈ ഫ്രീക്വൻസി LmR2 അഥവാ ν2π ആയിരിക്കും ഈ കാര്യങ്ങളും കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ ക്വാണ്ടം റിസൾട്ടിലേക്ക് ഉപയോഗിച്ചും നമുക്ക് സെലക്ഷൻ റൂളിലേക്ക് എത്തിച്ചേരുന്നതെങ്ങനെയെന്ന് അടുത്ത ക്ലാസിൽ വിശദീകരിക്കാം അടുത്ത രണ്ടു മൂന്ന് ക്ലാസ്സുകൾ നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയായ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ ഒന്ന് കൂടെ ഇവിടെ ഓർമിപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം ക്വാണ്ടം നമ്പർ വളരെ കൂടുതലാണെങ്കിൽ ക്വാണ്ടം റിസൾട്ട് ക്ലാസിക്കൽ റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്നു ഇതാണ് ബോർ മുന്നോട്ടുവെച്ച കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ